å നമസ്കാരം അവസാന ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ വിവിധ സവിശേഷതകളെക്കുറിച്ച് ചർച്ചചെയ്തു അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ ഇന്നത്തെ സെഷൻ ആരംഭിക്കാം വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നതിനുമുമ്പ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട അവസാന ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസിലാക്കാം ആദ്യം ലീനിയറിറ്റിയെക്കുറിച്ച് ചർച്ചചെയ്യുന്നു സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഇവിടെ ഇപ്പോൾ ടൈം ഷിഫ്റ്റിന്റെ കാര്യത്തിൽ സിഗ്നൽ a എന്ന് പറയുന്ന സമയത്തേക്ക് മാറുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും ഇപ്പോൾ ഫ്രീക്വൻസി ഷിഫ്റ്റിനെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനാൽ എന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം Fsa ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം അതിനർത്ഥം f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിൽ എവിടെയെങ്കിലും s ഉണ്ടെങ്കിൽ അതിനെ sa ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും പിന്നെ ടൈം ഡിഫറൻഷിയേഷനെക്കുറിച്ച് ചർച്ച ചെയ്തു f ന്റെ ഡെറിവേറ്റീവ് എന്നാണ് എങ്കിൽ അതിനാൽ ഫംഗ്ഷന്റെ n th ഡെറിവേറ്റീവ് f ന്റെ n th ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനാൽ ഇത് ഫംഗ്ഷന്റെ n th ഡെറിവേറ്റീവിനായി ലാപ്ലേസ് ട്രാൻസ്ഫോം നൽകും തുടർന്ന് ടൈം ഇന്റഗ്രേഷനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇന്റഗ്രലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും ഇവിടെ ഫംഗ്ഷൻ f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ ഫ്രീക്വൻസി ഡിഫറൻഷിയേഷൻ എന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും അതിനാൽ പ്രത്യേകിച്ചും ഈ ഫംഗ്ഷനും ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫ്രീക്വൻസി ഷിഫ്റ്റിന്റെയും ഫ്രീക്വൻസി ഡിഫറൻഷിയേഷന്റെയും കാര്യത്തിൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പതിവായി ഉപയോഗിക്കും അതിനാൽ ചർച്ച ചെയ്ത സവിശേഷതകൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് കാരണം ഇവ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ കണക്കുകൂട്ടലിൽ പതിവായി ഉപയോഗിക്കും ഇപ്പോൾ അടുത്തതായി ടൈം പിരിയോഡിസിറ്റി ഒരു ആവർത്തന ശ്രേണി

ഉപയോഗിച്ച് ഫംഗ്ഷൻ നൽകാൻ കഴിയുമെങ്കിൽ വിവിധ ഫംഗ്ഷനുകളുടെ സംയോജനമായി പീരിയോഡിക് ഫംഗ്ഷനെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് ചർച്ച ചെയ്തു ആദ്യത്തെ ഫംഗ്ഷൻ ഈ പീരിയോഡിക് ഫംഗ്ഷന്റെ മൂല്യം ആദ്യ സമയ കാലയളവിലാണ് തുടർന്ന് മറ്റുള്ളവ ടൈം ഷിഫ്റ്റ് വ്യവസ്ഥകളുള്ള ആദ്യ ഫംഗ്ഷന്റെ സമാഹാരം പോലെയാകും അതിനാൽ ഇതാണ് സമയം T സമയത്താൽ മാറ്റിയത് എന്നിട്ട് സമയം 2T കൊണ്ട് മാറ്റി ഇപ്പോൾ f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ന് പറയും ഇവിടെ F1 f1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ് പ്രാരംഭ മൂല്യവും അന്തിമ മൂല്യ സിദ്ധാന്തങ്ങളും ചർച്ചചെയ്തു ഒരു ഫംഗ്ഷന്റെ പ്രാരംഭ മൂല്യം കണ്ടെത്തണമെങ്കിൽ പ്രാരംഭ മൂല്യം നേരിട്ട് നൽകാമെന്ന് കണക്കാക്കി അതുപോലെ അന്തിമ മൂല്യ സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷന്റെ മൂല്യം ആയിരിക്കും എന്ന് ചർച്ച ചെയ്തു ഇപ്പോൾ ഇവയെല്ലാം മുൻ ക്ലാസ്സിൽ ചർച്ചചെയ്തു അതിനാൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം ഈ സാഹചര്യത്തിൽ F ന്റെ മൂല്യം നൽകിയിട്ടുണ്ട് ഇപ്പോൾ അത് ടൈം ഡൊമെയ്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും f ന്റെ അനുബന്ധ മൂല്യം നേടുകയും വേണം അതിനാൽപോലുള്ള പൊതുവായ രൂപത്തിൽ F ഉണ്ടെങ്കിൽ ഇവിടെ N ന്യൂമറേറ്റർ പോളിനോമിയലും D ഡിനോമിനേറ്റർ പോളിനോമിയലും ആണ് ഇപ്പോൾ 0 ന് തുല്യമായ N ന്റെ റൂട്ടുകളെ 'ട്രാൻസ്ഫർ ഫംഗ്ഷൻ F ന്റെ പൂജ്യങ്ങൾ ' എന്നും 0 ന് തുല്യമായി D ന്റെ റൂട്ടുകളെ 'ട്രാൻസ്ഫർ ഫംഗ്ഷൻ F ന്റെ പോളുകൾ ' എന്നും വിളിക്കുന്നു ഇപ്പോൾ F എന്നത് ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ് അത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനായിരിക്കില്ല അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷനും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനുമായി ആശയക്കുഴപ്പത്തിലാകരുത് f ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്താൻ F ഫംഗ്ഷൻ വിഭജിക്കുന്നതിന് ഭാഗിക ഭിന്നസംഖ്യ വിപുലീകരണ രീതി ഉപയോഗിക്കുന്നു അതിനാൽ ഫംഗ്ഷൻ F വിഭജിക്കുമ്പോൾ ലളിതമായ പദങ്ങളിലേക്ക് കടക്കും അതുവഴി F ന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഘട്ടങ്ങൾ എന്താണ് രണ്ട് ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നു ഒന്ന് ഭാഗിക ഭിന്നസംഖ്യ വിപുലീകരണം ഉപയോഗിച്ച് ആദ്യം F ഫംഗ്ഷനെ ലളിതമായ പദങ്ങളായി വിഘടിപ്പിക്കും എന്നിട്ട് ആദ്യ ഘട്ടത്തിൽ കണ്ടെത്തിയ ഓരോ പദത്തിന്റെയും വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നു ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന് സാധ്യമായ മൂന്ന് രൂപങ്ങളുണ്ട് ആദ്യ രൂപം ലളിതമായ പോളുകൾ ഉള്ളപ്പോൾ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം F ഉണ്ടെങ്കിൽ അത് ഒരു ന്യൂമറേറ്റർ പോളിനോമിയലിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഹരിക്കപ്പെടുകയും സമവാക്യം ൽ കാണിച്ചിരിക്കുന്നതുപോലെ ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കുകയും ചെയ്യാം ഘടകങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ രൂപത്തിലാണ് ഡിനോമിനേറ്റർ പോളിനോമിയൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ലളിതമായ പോൾ സമീപനം ഉപയോഗിക്കാം ഇപ്പോൾ എന്താണ് p1 p2 pn അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫംഗ്ഷന്റെ ലളിതമായ പോളുകളാണിവ ഇപ്പോൾ ഈ പോളുകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ N ന്റെ ഡിഗ്രി D നേക്കാൾ കുറവാണെന്ന് അനുമാനിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഡിനോമിനേറ്ററിലെ ഏറ്റവും ഉയർന്ന ഡിഗ്രി ന്യൂമറേറ്ററിലെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയേക്കാൾ വലുതാണെന്നാണ് ഭാഗിക ഭിന്നസംഖ്യ വിപുലീകരണ രീതി പ്രയോഗിക്കാം മുമ്പത്തെ സമവാക്യത്തിൽ കാണിച്ചിരിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം വിഘടിപ്പിക്കുന്നതിന് അതിനാൽ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം അത് വിഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ വിഘടിപ്പിക്കും വിഘടിച്ച പദങ്ങൾ പോലെ നമുക്ക് ഈ ഫംഗ്ഷനെ പ്രതിനിധീകരിക്കാൻ കഴിയും അതായത് വിപുലീകരണ ഗുണകങ്ങൾ k1 k2 kn F ന്റെ റെസിഡ്യൂസ് എന്നറിയപ്പെടുന്നു വിപുലീകരണ ഗുണകങ്ങളുടെ ഈ മൂല്യങ്ങൾ കണ്ടെത്താൻ ഇപ്പോൾ നിരവധി മാർഗങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രചാരമുള്ള സാങ്കേതികത റെസിഡ്യൂ രീതിയാണ് ഇപ്പോൾ ഇതിൽ എന്തുചെയ്യും ഇരുവശത്തെയും s പ്ലസ് p1 കൊണ്ട് ഗുണിക്കും അതിനാൽ വിവിധ പദങ്ങളായി വിഘടിപ്പിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോർമിനായുള്ള പദപ്രയോഗം കാണുകയാണെങ്കിൽ അത് പരിഹരിക്കാനാകും ആദ്യ പദത്തിന് ഡിനോമിനേറ്റർ s p1 ഉണ്ട് അതിനാൽ നമ്മൾ ആദ്യം എന്തുചെയ്യും ഇരുവശവും s p1 കൊണ്ട് ഗുണിക്കും അതിനാൽ ഗുണിക്കുമ്പോൾ ഇത് മാറും ഇപ്പോൾ s − p1 ന്റെ മൂല്യം ഇരുവശത്തും സജ്ജമാക്കുകയാണെങ്കിൽ k1 ഒഴികെയുള്ള വലതുവശത്തുള്ള പദങ്ങൾ 0 ആകും അതിനാൽ നിങ്ങൾക്ക് ലളിതമായി പറയാൻ കഴിയും ഇതിന്റെ മുഴുവൻ ഉൽപ്പന്നവും s −p1 ൽ കണക്കാക്കും അതിനാൽ നിങ്ങൾ പരിഹരിക്കുമ്പോൾ ന്റെ മൂല്യം ലഭിക്കും അതിനാൽ ഇപ്പോൾ കൂടുതൽ പൊതുവായ രൂപത്തിൽ ഏത് ഘടകത്തിനും എഴുതാം അതിനാൽ ഇത് സ്ഥിരമായ എന്ന പദത്തിന്റെ മൂല്യം നൽകും ഇപ്പോൾ ഈ പ്രത്യേക പ്രോപ്പർട്ടിയെ 'ഹീവിസൈഡ് സിദ്ധാന്തം' എന്ന് വിളിക്കുന്നു ഇപ്പോൾ യുടെ മൂല്യം അറിഞ്ഞുകഴിഞ്ഞാൽ F നായുള്ള വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും കാരണം ഇത് ഈ രൂപത്തിലേക്ക് വിഘടിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം ഇപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഇത് ഒന്നുമല്ല യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനാൽ ഇത് ഫ്രീക്വൻസി ഷിഫ്റ്റ് പ്രോപ്പർട്ടി അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് പ്രോപ്പർട്ടി ഓർമിക്കുകയാണെങ്കിൽ ആദ്യ ടേമിന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം കണ്ടെത്താനാകും അതിനാൽ ഇത് ആയി മാറും അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിലും വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താനാകും ഒടുവിൽ അവയെല്ലാം ക്ലബ് ചെയ്യുമ്പോൾ F ഫംഗ്ഷന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം ലഭിക്കും അതായത് F ന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള പോളുകളുണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം F ന് s p ൽ n തവണ ആവർത്തിച്ചുള്ള പോളുകളുണ്ടെങ്കിൽ എന്ന് കരുതുക അപ്പോൾ എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് ലളിതമായി എഴുതാം അവസാന ന്റെ ശേഷിക്കുന്ന ഭാഗമാണ് അതിന് s p ൽ പോളുകളില്ല ഈ രൂപത്തിൽ പ്രതിനിധീകരിക്കാത്ത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ബാക്കി ഭാഗമാണിത് മുമ്പത്തെ കാര്യത്തിൽ ചെയ്തതുപോലെ ന്റെ മൂല്യം കണ്ടെത്താനാകും അതിനാൽ ഇപ്പോൾ kn−1 ന്റെ മൂല്യം എങ്ങനെ കണ്ടെത്താം kn−1 ന്റെ മൂല്യം കണ്ടെത്തുന്നതിന് മുമ്പത്തെ കേസിൽ ചെയ്തതുപോലെ ഓരോ പദവും spn കൊണ്ട് ഗുണിക്കണം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു സ്ഥിരമായ പദമായി kn ഉണ്ടായിരിക്കും പക്ഷേ kn 1 കണ്ടെത്തേണ്ടതുണ്ട് കാരണം kn ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ എന്തുചെയ്യാൻ കഴിയും മുഴുവൻ പദപ്രയോഗവും വേർതിരിക്കുകയാണെങ്കിൽ kn ലഭിക്കും അതിനാൽ നമുക്ക് ലഭിക്കും അതുപോലെ മറ്റുള്ളവയ്ക്കും Mth ടേം വരും അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കൈയിൽ എല്ലാ സ്ഥിരതകളും ഉണ്ട് ഇപ്പോൾ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം ഓർക്കുന്നുവെങ്കിൽ ഇത് മറ്റൊന്നുമല്ല ഫ്രീക്വൻസി ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി frequency differentiation property എന്നിവയുടെ സഹായത്തോടെ ന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം കണ്ടെത്താൻ കഴിയും അതിനാൽ വ്യക്തിഗത പദങ്ങൾ കംപൈൽ ചെയ്യുകയാണെങ്കിൽ ഒന്നാമതായി നിങ്ങൾക്ക് എന്ന് എഴുതാം രണ്ടാമതായി എഴുതാം സമാനമായി മൂന്നാമത്തെ ടേമിനും തുടങ്ങിയവ എഴുതാം അതിനാൽ kth ടേമിനായി nth ടേമിനായി അധികം എഴുതുന്നു അതാണ് എന്ന ഫംഗ്ഷന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനാൽ ഈ വഴി വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫംഗ്ഷൻ f കണ്ടെത്താനാകും ഇപ്പോൾ മൂന്നാമത്തെ കേസ് ഉണ്ട് അവിടെ നമുക്ക് കോമ്പ്ലെക്സ് പോളുകളുണ്ട് ഇപ്പോൾ കോമ്പ്ലെക്സ് പോളുകളുടെ ജോഡി ആവർത്തിച്ചില്ലെങ്കിൽ ലളിതമാണ് അത് ആവർത്തിച്ചാൽ കോമ്പ്ലെക്സ് പോളുകൾക്ക് രണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം പോളുകളുണ്ടാകും ഇപ്പോൾ ലളിതമായ യഥാർത്ഥ പോളുകൾ കൈകാര്യം ചെയ്യുന്ന സമാന രീതിയിൽ ലളിതമായ കോമ്പ്ലെക്സ് പോളുകൾ കൈകാര്യം ചെയ്യുന്നു കോമ്പ്ലെക്സ് ആൾജിബ്ര ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഫലം അൽപ്പം ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ കോമ്പ്ലെക്സ് പോളുകളുണ്ടെങ്കിൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ഒരു ബദൽ സമീപനം ഉപയോഗിക്കും അതിനാൽ സ്ക്വയർ പൂർത്തിയാക്കുന്നു എന്നറിയപ്പെടുന്ന രീതിയാണ് സമീപനം ഇപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് s α2 β2 പോലുള്ള ഒരു പൂർണ്ണ സ്ക്വയറായി ഡിനോമിനേറ്ററിലെ ഓരോ കോമ്പ്ലെക്സ് പോൾ ജോഡികളെയും പ്രകടിപ്പിക്കാനുള്ള ആശയമാണിത് അതിനാൽ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായ സ്ക്വയറായി പ്രതിനിധീകരിക്കാൻ കഴിയും കൂടാതെ ഈ പദത്തിന്റെ ബാക്കി ഭാഗവും ഡിനോമിനേറ്ററിൽ ഉണ്ട് F ഫംഗ്ഷന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഇത് എങ്ങനെ പരിഹരിക്കും നമുക്ക് ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം അതുവഴി ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് മനസിലാക്കാൻ കഴിയും N D എന്നിവയ്ക്ക് എല്ലായ്പ്പോഴും യഥാർത്ഥ ഗുണകങ്ങൾ ഉള്ളതിനാൽ അതിനാൽ യഥാർത്ഥ ഗുണകങ്ങളുള്ള പോളിനോമിയലിന്റെ കോമ്പ്ലെക്സ് റൂട്ടുകൾ എല്ലായ്പ്പോഴും സംയോജിത ജോഡികളായി സംഭവിക്കും അതിനാൽ ഇത് മനസ്സിൽ വയ്ക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം F കണ്ടെത്താൻ ശ്രമിക്കുക വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം F നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അതിന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക F രണ്ട് ഭാഗങ്ങളായി വിഘടിപ്പിക്കാം ആദ്യത്തേത് നിങ്ങൾക്ക് കോമ്പ്ലെക്സ് പോളുകളൊന്നുമില്ല അതിനാൽ കോമ്പ്ലെക്സ് പോളുകളില്ലാത്ത F ന്റെ ശേഷിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിൽ എന്ന പദം ഉണ്ട് ഡിനോമിനേറ്ററിലെ സ്ക്വയർ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ പോളിനോമിയലിൽ കുറച്ച് പദങ്ങൾ ചേർക്കുകയും അവയിൽ ചിലത് കുറയ്ക്കുകയും പോലെ കാണപ്പെടുന്ന രീതിയിൽ പുനക്രമീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ പോളിനോമിയലിനെ അത്തരമൊരു രീതിയിൽ പുനക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രത്യേക പോളിനോമിയലിനെ ആയി പ്രതിനിധീകരിക്കാൻ കഴിയും അതുപോലെ ന്യൂമറേറ്ററിലും എന്ന രീതിയിൽ പോളിനോമിയൽ ക്രമീകരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പുനക്രമീകരിക്കുമ്പോൾ ഫംഗ്ഷനെ പ്രതിനിധീകരിക്കാൻ കഴിയും ഇപ്പോൾ ആദ്യത്തെ പദം കണ്ടാൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ അതിനാൽ നായി ആ പദപ്രയോഗം ഉപയോഗിച്ച് വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ കഴിയും കാരണം ഈ പദപ്രയോഗം കാണുകയാണെങ്കിൽ ഇത് ഫ്രീക്വൻസി ഷിഫ്റ്റ് പ്രോപ്പർട്ടിയും ടേം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് ലളിതമായി എഴുതാൻ കഴിയുന്നത് ഇതിന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും കാരണം ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് ഫ്രീക്വൻസി ഷിഫ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിക്കും അത് ആണെന്ന് പറയും അതുപോലെ ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും കാരണം ഇവിടെ ഈ പ്രത്യേക വിഭാഗം ഫ്രീക്വൻസി ഷിഫ്റ്റും സൈനിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് അതിനാൽ എന്ന് എഴുതുന്നു ഇത് ന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ് അതിനാൽ കോമ്പ്ലെക്സ് പോളുകൾ ഉള്ളപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന തരത്തിൽ പദപ്രയോഗങ്ങൾ പുനക്രമീകരിക്കാൻ കഴിയും വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ പോളുകൾ ലളിതമോ ആവർത്തിച്ചുള്ളതോ സങ്കീർണ്ണമോ ആണെങ്കിലും പദപ്രയോഗം കണ്ടെത്തുന്നതിന് എല്ലായ്പ്പോഴും ഉപയോഗിക്കാവുന്ന പൊതു സമീപനമാണ് ആൾജിബ്ര രീതി ആൽജിബ്രയിൽ ചെയ്തതെന്തും ഇവിടെയും പ്രയോഗിക്കാൻ കഴിയും ലാപ്ലേസ് ട്രാൻസ്ഫോർമിൻറെ ഏത് സാഹചര്യത്തിലും സ്ഥിരമായ ഘടകങ്ങൾ കണ്ടെത്താൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഇതുവരെ ചർച്ച ചെയ്തവ ഉപയോഗിക്കാം അതിനാൽ ഈ ആശയങ്ങൾ മനസിലാക്കാൻ സഹായത്തോടെ ഒരു ഉദാഹരണം നോക്കാം അതുവഴി വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നതെങ്ങനെ എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകും അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം നൽകി അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ കാണാൻ കഴിയും മൂന്ന് പോളുകളും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അതായത് പോളുകൾ s 0 ന് തുല്യമാണ് s മൈനസ് 2 ന് തുല്യമാണ് s മൈനസ് 3 ന് തുല്യമാണ് അതിനാൽ ഈ പദപ്രയോഗത്തെ ഇങ്ങനെ പ്രതിനിധീകരിക്കാം A B C എന്ന അജ്ഞാത സ്ഥിരാങ്കങ്ങളുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് അടുത്ത ദൌത്യം അതിനാൽ ഇപ്പോൾ ചർച്ച ചെയ്ത റെസിഡ്യു രീതി ഉപയോഗിക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനെ s മായി ഗുണിക്കുകയും അതിനെ 0 ന് തുല്യമാക്കുകയും ചെയ്യും

അതിനാൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും മറ്റൊരു രീതി ലളിതമായ ബീജഗണിത രീതി ഉപയോഗിക്കാം ഇത് പൊതുവായ പദപ്രയോഗങ്ങൾ പരിഹരിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്നു അതിനാൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ആ സാങ്കേതികവിദ്യ പ്രയോഗിക്കും അതിനാൽ നമുക്ക് ഇരുവശത്തെയുംss 2s 3 കൊണ്ട് ഗുണിക്കാം അതിനാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഇവിടെ എക്സ്പ്രഷൻ കാണുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും ss2s3 ഡിനോമിനേറ്ററിലും ഉണ്ട് അതിനാൽ ഇതിനെ ഇരുവശവും ഗുണിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്

അതിനാൽ ഇവിടെ കണ്ടാൽ ഇരുവശവും s s 2 s 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ലഭിക്കും ഡിനോമിനേറ്ററുകൾ റദ്ദാക്കുകയും ന്യൂമറേറ്റർ ലഭിക്കുന്നത്

അതിനാൽ ഗുണനത്തിൽ നിന്ന് ലഭിച്ചത് ഇതാണ് അടുത്തതായി s ന്റെ സമാന ശക്തികളുടെ ഗുണകങ്ങളെ തുല്യമാക്കണം അതിനാൽ സ്ഥിരമായ പദങ്ങൾക്ക് നിങ്ങൾ സ്ഥിരമായ പദങ്ങളെ തുല്യമാക്കിയാൽ നിങ്ങൾക്ക് A 2 ന്റെ മൂല്യം ലഭിക്കും നിങ്ങൾ s ഉള്ള പദങ്ങൾ മാത്രം തുല്യമാകുമ്പോൾ നിങ്ങൾക്ക് 3B 2C −10 എന്ന സമവാക്യം ലഭിക്കും നിങ്ങൾ s2 ന്റെ പദങ്ങൾ തുല്യമാക്കുമ്പോൾ B C −1 എന്ന മറ്റൊരു സമവാക്യം ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങളും രണ്ട് അജ്ഞാതങ്ങളുമുണ്ട് ഇത് പരിഹരിക്കാനാകും മൂല്യം വീണ്ടും A 2 B −8 C 7 ആയി ലഭിക്കും അതിനാൽ ഒന്നുകിൽ ഈ രീതി അല്ലെങ്കിൽ മുമ്പത്തെ രീതി ഉപയോഗിക്കുന്നു ഇത് ചർച്ചചെതയ്തു റെസിഡ്യു രീതിയാണ് നിങ്ങൾക്ക് സമാന ഫലങ്ങൾ ലഭിക്കും അവസാനമായി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ F ന് വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം വിഘടിപ്പിക്കുന്നതിലൂടെ ലഭിക്കും F ന്റെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ പറയാൻ കഴിയും നൽകിയ സമയം t≥0 കാരണം ഇത് t≥0 ന് ബാധകമാകുകയുള്ളൂ അതിനാൽ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നതിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അവിടെ വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നതുമായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ചർച്ചചെയ്യുന്നു അതിനാൽ വിവിധ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉപയോഗം അടുത്ത ആഴ്ച തുടരും അതിനാൽ ആദ്യത്തെ ഓർഡർ രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടുകൾ എന്നിവ ചർച്ച ചെയ്തപ്പോൾ വിവിധ സെക്കൻഡ് ഓർഡറും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളും ഉണ്ടെന്ന് ഓർക്കുക അവ പരിഹരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അതിനാൽ രണ്ടാമത്തെ ഓർഡർ അല്ലെങ്കിൽ ആദ്യ ഓർഡർ സർക്യൂട്ടുകൾ കാണുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും അത്തരം സമവാക്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്ന് കാണുകയും ചെയ്യും നന്ദി